ഹലോ സുരക്ഷിത സിസ്റ്റംസ് എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണത്തിൽ Return to Lib എന്ന ഈ ആക്രമണത്തെ നമ്മൾ പരിശോധിച്ചിരുന്നു അത് എക്സിക്യൂട്ടബിൾ സ്റ്റാക്കിൽ പ്രവർത്തിക്കാമെന്ന നേട്ടമുണ്ട് എന്നാൽ നാം മുൻ ലെക്ചറിൽ കണ്ടതു പോലെ ഈ ആക്രമണത്തിന് പ്രധാന പരിമിതി Libcൽ define ചെയ്ത functions മാത്രമേ attack ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റൂ എന്നതാണ് അതിനാൽ ആക്രമണകാരിക്ക് Libcയിലുള്ള ഫംഗ്ഷനുകൾ മാത്രമേ invoke ചെയ്യുവാൻ കഴിയൂ എന്ന് നമ്മൾ കണ്ടു ഉദാഹരണത്തിന് Libcയിലെ system function നീക്കംചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ നിർമ്മിച്ച ആക്രമണം നടപ്പാക്കാൻ ആവില്ല നമുക്ക് ഈ പ്രഭാഷണത്തിൽ ROP ആക്രമണം എന്താണ് എന്ന് നോക്കാം ROP ആക്രമണം അല്ലെങ്കിൽ റിട്ടേൺ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആക്രമണം സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ Hovav Shacham കണ്ടെത്തി അതിനാൽ Return to Libc attack പോലെ ഇത് സ്റ്റാക്കിലുള്ള റിട്ടേൺ അഡ്രസ്സിനെ Libcയിൽ ചില അഡ്രസ്സുകൾ ഉപയോഗിച്ച് തിരുത്തിയെഴുതിക്കൊണ്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ തടയുന്നു എന്നിരുന്നാലും Return to Libc attackൽ നിന്ന് വ്യത്യസ്തമായി ROP ആക്രമണം Libcയിൽ നിലവിലുള്ള ഫംഗ്ഷനുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതിന് പരിമിതപ്പെടുത്തിയിട്ടില്ല പകരം ഇതിന് ഏത് കോഡും attack നടത്താൻ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ആക്രമണകാരി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന Payloadൽ 7 വ്യത്യസ്ത നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ പേലോഡിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി ആക്രമണകാരി ആദ്യം ചെയ്യേണ്ടത് Libcയിൽ ഈ 7 നിർദ്ദേശങ്ങൾ കാണിച്ചിരിക്കുന്ന ഓർഡറിൽ ഉള്ള ചില ഫംഗ്ഷനുകൾ കണ്ടെത്തുക എന്നതാണ് ഒരു ഫംഗ്ഷനിൽ അത്തരം നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണി പൂർണ്ണമായും കണ്ടെത്താനാകില്ല അതിനാൽ റിട്ടേൺ ടു ലിബ് ആക്രമണം നടക്കില്ല ROP ആക്രമണത്തിൽ Libc ലൈബ്രറിയിലെ ഒരു നിർദ്ദിഷ്ട ഫംഗ്ഷൻ ആശ്രയിക്കുന്നതിനുപകരം നമ്മൾ കാര്യങ്ങൾ അൽപം വ്യത്യസ്തമായി ചെയ്യുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം ഈ പ്രത്യേക ശ്രേണിയിൽ നടപ്പിലാക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ നിർമ്മിക്കുന്നു ഈ ഫംഗ്ഷൻ ഇപ്പോൾ Libcയിൽ ഉണ്ടെന്ന് കരുതുക എങ്കിൽ ആക്രമണകാരിക്ക് ആ ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ subvert ചെയ്യാനും അയാളുടെ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ ക്രമം ഉള്ള ഒരു ഫംഗ്ഷൻ Libcയിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ ROP ആക്രമണത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ നിർദ്ദേശങ്ങൾ മുഴുവനായുള്ള നിർദ്ദിഷ്ട ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരമൊരു ഫംഗ്ഷൻ സ്വയം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു ആക്രമണകാരി നിർവ്വഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ടാർഗെറ്റ് പേലോഡ് സൃഷ്ടിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണി എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ആദ്യ ഘട്ടം ഗാഡ്ജെറ്റുകൾ എന്നറിയപ്പെടുന്ന ഒന്ന് കണ്ടെത്തുക എന്നതാണ് നിർദ്ദേശങ്ങളുടെ ഒരു ഹ്രസ്വ ശ്രേണിയാണ് ഗാഡ്ജെറ്റ് അതിനുശേഷം ഒരു return ഉണ്ടാകും അതിനാൽ ഒരു സാധാരണ ഈ ഗാഡ്ജെറ്റിൽ ഒന്നോ അതിലധികമോ ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അതിനുശേഷം അതിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകും ഗാഡ്ജെറ്റിന് പുറത്തേക്കു നിയന്ത്രണം കൈമാറുന്ന നിർദ്ദേശങ്ങൾ ഗാഡ്ജെറ്റിൽ കൊടുക്കാൻ പാടില്ല അത്തരം ഗാഡ്ജെറ്റുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും Libc ലൈബ്രറി സ്ഥിതിവിവരക്കണക്കിലൂടെ വിശകലനം ചെയ്ത് ലൈബ്രറിയിൽ സാധ്യമായ എല്ലാ ഗാഡ്ജെറ്റുകളും തിരിച്ചറിയുന്നതിന് നമ്മൾ ഒരു പ്രീ പ്രോസസ്സിംഗ് നടത്തും ഇത് Libcയിൽ നിലവിലുള്ള പ്രോഗ്രാം ബൈനറിയാണെന്ന് നമുക്ക് പറയാം നമ്മൾ തിരിച്ചറിഞ്ഞത് 7 വ്യത്യസ്ത ഗാഡ്ജെറ്റുകളാണ് അത് കൃത്യമായി ഈ പ്രവർത്തനം ചെയ്യും ഉദാഹരണത്തിന് ഇവിടെയുള്ള ഓരോ ഗാഡ്ജെറ്റിനും ഗാഡ്ജെറ്റ് G1 ന് ഒരു നിർദ്ദേശവും റിട്ടേൺ ഉം ഉണ്ട് അതുപോലെ ഒരു ഗാഡ്ജെറ്റ് G2 ഉണ്ട് ഈ രീതിയൽ Libc ഫയലിലെ പ്രവർത്തനക്ഷമതയുള്ള ഗാഡ്ജറ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നു രണ്ടാമത്തെ ഘട്ടം ഈ പ്രവർത്തനം നേടുന്നതിന് നമ്മൾ ഈ ഗാഡ്ജെറ്റുകൾ ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട് അത് ചെയ്യുന്ന രീതി ഇപ്രകാരമാണ് നമ്മൾ ഇനിപ്പറയുന്ന രീതിയൽ ഒരു സ്റ്റാക്ക് നിർമ്മിക്കുന്നു മടക്ക വിലാസം ഉണ്ടായിരിക്കേണ്ട സ്ഥലത്ത് ഗാഡ്ജെറ്റ് 1 4 ബൈറ്റുകൾക്ക് മുകളിൽ ഗാഡ്ജെറ്റ് 2 തുടർന്ന് G3 ഗാഡ്ജെറ്റ് 4 എന്നിവയുടെ വിലാസം ഇടുന്നു എക്സിക്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ യഥാർത്ഥ റിട്ടേൺ വിലാസം ഉണ്ടായിരിക്കേണ്ട ഈ സ്ഥാനത്തേക്ക് സ്റ്റാക്ക് പോയിന്റർ point ചെയ്യുന്നു നമ്മൾ യഥാർത്ഥ റിട്ടേൺ വിലാസം ഗാഡ്ജെറ്റ് 1ൻറെ അഡ്രസ്സ് കൊണ്ട് മാറ്റിസ്ഥാപിച്ചതിനാൽ ഈ വിലാസം എടുത്ത് ഇൻസ്ട്രക്ഷൻ പോയിന്ററിലേക്ക് ലോഡു ചെയ്യുന്നു അതിനാൽ രണ്ട് നിർദ്ദേശങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു നന്നായി മനസിലാക്കാൻ മടക്ക നിർദ്ദേശം എങ്ങനെ നടപ്പിലാക്കുന്നുവെന്ന് നോക്കാം റിട്ടേൺ നിർദ്ദേശം execute ചെയ്യുമ്പോൾ ഒരേസമയം രണ്ട് കാര്യങ്ങൾ നമ്മൾ നടക്കുന്നു ആദ്യം G1 ന്റെ വിലാസമായ സ്റ്റാക്ക് പോയിന്റർ ചൂണ്ടിക്കാണിച്ച ഉള്ളടക്കം പ്രോഗ്രാം കൌണ്ടറിലേക്ക് ലോഡുചെയ്യുന്നു രണ്ടാമത്തെ കാര്യം സ്റ്റാക്ക് പോയിന്റർ 4 ന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു അതിനാൽ സ്റ്റാക്ക് പോയിന്റർ ഗാഡ്ജെറ്റ് 2ന്റെ വിലാസത്തിലേക്ക് point ചെയ്യുന്നു ഇപ്പോൾ program counter ൽ G1 ന്റെ address ആയതിനാൽ movl esi to 8esi എന്ന instructionനെ തുടർന്ന് ഒരു return instruction ഉം execute ചെയ്യുന്നു G1 ലെ റിട്ടേൺ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് തൊട്ടുമുമ്പ് ഗാഡ്ജെറ്റ് 2 ന്റെ വിലാസത്തിലേക്ക് പോയിന്റു ചെയ്യുന്ന സ്റ്റാക്ക് പോയിന്റർ നമ്മുടെ പക്കലുണ്ട് അതിനാൽ റിട്ടേൺ നിർദ്ദേശം G1 ന്റെ ഭാഗമായി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ G2 ന്റെ വിലാസം പ്രോഗ്രാം കൌണ്ടറിലേക്ക് ലോഡുചെയ്യുന്നു സ്റ്റാക്ക് പോയിന്റർന്റെ value 4byte വർദ്ധിപ്പിച്ച് G3ന്റെ വിലാസത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഇപ്പോൾ പ്രോഗ്രാം കൌണ്ടർ G2ന്റെ വിലാസത്തിലേക്ക് പോയിന്റുചെയ്യുന്നതിനാൽ G2 എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു ഇത് mov byte നിർദ്ദേശമാണ് return instruction ഉം execute ചെയ്യുന്നു റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മുമ്പത്തെ ഗാഡ്ജെറ്റിൽ കണ്ടതുപോലെ പ്രോഗ്രാം കൌണ്ടറിലേക്ക് G3 യുടെ വിലാസം എടുത്തിട്ടുണ്ട് അതിനാൽ mov byte 0 offset of esic എന്നിവ അടങ്ങിയ G 3 നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ G3 ൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉള്ളപ്പോൾ അത് G4 എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കാരണമാകും ഈ രീതിയൽ ഗാഡ്ജെറ്റുകളുടെ വിലാസം ഉചിതമായി സ്റ്റാക്കിൽ സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് വ്യത്യസ്ത ഗാഡ്ജെറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ടാർഗെറ്റ് പേലോഡിന് നേടേണ്ട നിർദ്ദേശങ്ങളുടെ ക്രമം നേടാൻ നമുക്ക് കഴിയും Return to Lib ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായി attack ചെയ്യുന്നതിനും എക്സിക്യൂഷൻ അട്ടിമറിക്കുന്നതിനും നമ്മൾ Libc ലൈബ്രറിയിലെ നിർദ്ദിഷ്ട ഫംഗ്ഷനുകൾ ആശ്രയിക്കുന്നില്ല പകരം നമ്മൾ ഗാഡ്ജെറ്റുകൾ എന്ന് വിളിക്കുന്ന കോഡുകളുടെ ചെറിയ സ്നിപ്പെറ്റുകളെ ആശ്രയിക്കുന്നു മാത്രമല്ല ഈ വിവിധ ഗാഡ്ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ stack contents സൃഷ്ടിക്കുകയും ടാർഗെറ്റ് പേലോഡ് നിർദ്ദേശങ്ങൾ നേടുന്നതിന്റെ അതേ പ്രഭാവം നൽകുകയും ചെയ്യുന്നു അടുത്തതായി നമ്മൾ നോക്കുന്നത് അത്തരം ഗാഡ്ജെറ്റുകൾ നമ്മുടെ ലൈബ്രറിയിൽ എങ്ങനെ കണ്ടെത്താം എന്നാണ് Libc ലൈബ്രറിയുടെ സ്റ്റാറ്റിക് വിശകലനത്തിലൂടെയാണ് ഇതിനുള്ള വഴി അതിനാൽ Libc ലൈബ്രറിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗാഡ്ജെറ്റുകളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഗാഡ്ജെറ്റ് ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങളുടെ ശ്രേണിയാണ് അത് റിട്ടേൺ ഇൻസ്ട്രക്ഷനിൽ അവസാനിക്കുന്നു ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷനുള്ള OPCODE mumber 0x0XC3 ആണ് നമ്മൾ ചെയ്യേണ്ടത് 0x0XC3 OPCODE ഉപയോഗിച്ച് അവസാനിക്കുന്ന ഗാഡ്ജെറ്റുകൾ തിരിച്ചറിയുക എന്നതാണ് Libc ലൈബ്രറി വിശകലനം ചെയ്താണ് നമ്മൾ ഗാഡ്ജെറ്റുകൾ കണ്ടെത്തുന്ന രീതി നമ്മൾ ലൈബ്രറി ബൈനറി മോഡിൽ തുറന്ന് 0x0XC3 നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ ലൈബ്രറി ബൈറ്റ് ബൈ ബൈറ്റ് ആയി സ്കാൻ ചെയ്യാൻ ആരംഭിക്കുന്നു ഉദാഹരണത്തിനായി നമ്മൾ ആദ്യമായി എടുക്കുന്ന നമ്പർ 0x0XC3 ഇതാണ് ഈ നമ്പർ 0x0XC3 ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ Corresponding ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ 0xC3 നിർദ്ദേശം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗാഡ്ജെറ്റുകൾ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇത് ചെയ്യുന്നതിന് നമ്മൾ മുമ്പത്തെ ബൈറ്റ് മൂല്യങ്ങൾ നോക്കുകയും ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു നിർദ്ദേശം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ 0xC3 റൂട്ടായി ഒരു ട്രീയും ആ റൂട്ടിന്റെ ചിൽഡ്രൻ ആയി ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങളും സൃഷ്ടിക്കുന്നു അതിനാൽ മുൻനിശ്ചയിച്ച ദൈർഘ്യം "W" നേടുന്നതുവരെ നമ്മൾ പിന്നിലേക്ക് പോകുന്നു ഒരു സാധാരണ Libc ഫയലിലെ ഗാഡ്ജെറ്റിലെ പരമാവധി ഇൻസ്ട്രക്ഷൻ എണ്ണം 1 MB ആണ് 15000 വ്യത്യസ്ത ഗാഡ്ജെറ്റുകൾ നമ്മൾ കണ്ടെത്തി നമ്മൾ ഒരു പേലോഡ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ 15000 ൽ നിന്ന് ഉചിതമായ ഗാഡ്ജെറ്റുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുവഴി നമ്മുടെ ടാർഗെറ്റ് പേലോഡ് എക്സിക്യൂഷൻ കൈവരിക്കാനാകും ഗാഡ്ജെറ്റുകൾ കണ്ടെത്താൻ രണ്ട് വഴികളുണ്ട് ഒന്ന് ഇന്റന്റഡ് എന്നും മറ്റൊന്ന് അൺഇന്റന്റഡ് എന്നും അറിയപ്പെടുന്നു നമുക്ക് ഉദാഹരണ സഹായത്തോടെ ഇത് നോക്കാം Libc ഫയൽ സ്കാൻ ചെയ്യുമ്പോൾ മുകളിലുള്ള സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ ബൈറ്റ് മൂല്യങ്ങളുടെ ഒരു ശ്രേണി നമുക്ക് കാണാൻ കഴിയും ഈ ബൈറ്റ് മൂല്യങ്ങളെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ ലഭിക്കും ഉദാഹരണത്തിന് F7 മുതൽ ഈ ബൈറ്റ് മൂല്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നുവെന്ന് കരുതുക തുടർന്ന് നമുക്ക് ഉപയോഗപ്രദമായ ഒരു നിർദ്ദേശം F7 C7 07 00 00 00 കണ്ടെത്താനാകും അത് test 7 edi എന്നinstruction ആണ് ശേഷിക്കുന്ന ഭാഗം 0 f 95 45 0xC3 എന്നിവ setnzb എന്ന instruction വ്യാഖ്യാനിക്കുന്നു കംപൈലർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതായിരിക്കാമെന്ന് നമ്മൾ കാണുന്നു അതിനാൽ നമ്മൾ ഇതിനെ ഇന്റന്റഡ് ഉദ്ദേശിച്ച നിർദ്ദേശങ്ങളായി വിളിക്കുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളും ഒരു ഗാഡ്ജെറ്റ് സൃഷ്ടിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ വിശകലനം 1 ബൈറ്റ് ഉപയോഗിച്ച് ഓഫ്സെറ്റ് ചെയ്യുകയും F7ൽ നിന്ന് ആരംഭിക്കുന്നതിനുപകരം C7ൽ നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു SERIES നിർദ്ദേശങ്ങൾ ലഭിക്കും ഇനി നമുക്ക് C7 ൽ നിന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നുവെന്ന് കരുതുക C7 07 00 00 00 0F എന്നിവയുടെ ക്രമം movl instruction ആയി വ്യാഖ്യാനിക്കപ്പെടുന്നു 95 45 എന്നിവ XCHG instruction ആയും C3 return instruction ആയും വ്യാഖ്യാനിക്കപ്പെടുന്നു ഇതൊരു സാധുവായ ഗാഡ്ജെറ്റാണെന്ന് നമ്മൾ കണ്ടെത്തി ഈ നിർദ്ദേശങ്ങൾ കംപൈലർ ഉദ്ദേശിച്ചുള്ളതല്ലെങ്കിലും നമ്മൾ നിർദ്ദേശങ്ങൾ വിശകലനം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഓഫ്സെറ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ നിർദ്ദേശങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിയും ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ത തരം ഗാഡ്ജെറ്റുകൾ നേടാൻ കഴിയും വാസ്തവത്തിൽ X86 പ്ലാറ്റ്ഫോമുകൾക്കായി പിന്തുണയ്ക്കുന്ന ഗാഡ്ജെറ്റുകളുടെ എണ്ണം വളരെ ഉയർന്നതാണ് ARM അല്ലെങ്കിൽ RISC V പോലുള്ള RISC പ്രോസസറിനായി നമ്മൾ കണ്ടെത്തുന്ന ഗാഡ്ജെറ്റുകളുടെ എണ്ണം X86 പോലുള്ള CISC അടിസ്ഥാനമാക്കിയുള്ള പ്രോസസ്സറുകളെക്കാൾ വളരെ കുറവാണ് അതിനാൽ CISC അധിഷ്ഠിത പ്രോസസ്സറുകൾ ROP ആക്രമണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് RISC പ്രോസസ്സറുകളായ ARM അല്ലെങ്കിൽ OpenRISC അല്ലെങ്കിൽ RISC V ROP ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് ഗാഡ്ജെറ്റുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം രജിസ്റ്റർ edxലേക്ക് കുറച്ച് ഡാറ്റ നീക്കാൻ ആഗ്രഹിക്കുന്ന ലളിതമായ ഒരെണ്ണം ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം ഈ ഉദാഹരണത്തിൽ ""deadbeef"" രജിസ്റ്റർ edxലേക്ക് നീക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ആവശ്യത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജെറ്റിൽ pop edxന് ശേഷം രണ്ട് നിർദ്ദേശങ്ങളും തുടർന്ന് ഒരു return statementഉം അടങ്ങിയിരിക്കുന്നു ഈ പ്രത്യേക ഗാഡ്ജെറ്റ് വിലാസം അടങ്ങിയിരിക്കുന്ന സ്റ്റാക്കിലെ ഒരു സ്ഥാനത്തേക്ക് സ്റ്റാക്ക് പോയിന്റർ വിരൽ ചൂണ്ടുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഫംഗ്ഷനോ ഗാഡ്ജെറ്റോ return statement എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ആദ്യം സ്റ്റാക്ക് പോയിന്റർ ചൂണ്ടിക്കാണിച്ച സ്റ്റാക്കിലെ ഉള്ളടക്കങ്ങൾ ഗാഡ്ജെറ്റ് വിലാസമാണെങ്കിൽ ഈ ഉള്ളടക്കങ്ങൾ പ്രോഗ്രാം കൌണ്ടറിലേക്ക് നീക്കം ചെയ്യപ്പെടും അതേ സമയം സ്റ്റാക്ക് പോയിന്റർ 4 വർദ്ധിപ്പിക്കുകയും "deadbeef""അടങ്ങുന്ന ഈ സ്ഥലത്തേക്ക് പോയിന്റുചെയ്യുകയും ചെയ്യും ഇപ്പോൾ പ്രോഗ്രാം കൌണ്ടർ ഈ പ്രത്യേക ഗാഡ്ജെറ്റിലേക്ക് പോയിന്റു ചെയ്യുന്നതിനാൽ നമുക്ക് പോപ്പ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ഇപ്പോൾ പോപ്പ് നിർദ്ദേശം "deadbeef" ആയ സ്റ്റാക്ക് പോയിന്ററിന്റെ നിലവിലെ ഉള്ളടക്കങ്ങൾ എടുക്കുകയും ഈ ഉള്ളടക്കങ്ങൾ ഒരേസമയം edx രജിസ്റ്ററിൽ ലോഡ് ചെയ്യുകയും ചെയ്യും സ്റ്റാക്ക് പോയിന്റർ 4 ബൈറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ റിട്ടേൺ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ "deadbeef" സ്ഥാനത്തിന് മുകളിൽ 4 ബൈറ്റുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു G1 G2 എന്നീ രണ്ട് ഗാഡ്ജെറ്റുകൾ ഉപയോഗിച്ച് ഏകപക്ഷീയമായ ഡാറ്റ eax രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം ഗാഡ്ജെറ്റ് G1 pop edx retutn എന്നീ statements ഉൾക്കൊള്ളുന്നു ഗാഡ്ജെറ്റ് G2 edx 64 മെമ്മറിയിലെ ഉള്ളടക്കങ്ങൾ eax രജിസ്റ്ററിലേക്ക് നീക്കുന്നതായ നിർദ്ദേശം ഉൾക്കൊള്ളുന്നു അതിനാൽ ഈ രണ്ട് ഗാഡ്ജെറ്റുകളും എങ്ങനെ ഒരുമിച്ച് ചേർക്കാമെന്ന് നോക്കാം അതിലൂടെ നമുക്ക് arbitarary ആയ ഡാറ്റ eax രജിസ്റ്ററിലേക്ക് ലഭിക്കും അതിനാൽ സ്റ്റാക്ക് കണ്ടൻറ് താഴെ പറയുന്നത് പോലെയാകും ആദ്യ ഗാഡ്ജെറ്റ് G1 ന് ഈ pop ഇൻസ്ട്രക്ഷൻ അതിനുശേഷം ഒരു റിട്ടേൺ ഉണ്ട് രണ്ടാമത്തെ ഗാഡ്ജെറ്റ് G2 ന് ഒരു മൂവ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് തുടർന്ന് റിട്ടേൺ instrtuction ഉണ്ട് Mov നിർദ്ദേശം edx രജിസ്റ്ററിലെ ഉള്ളടക്കങ്ങൾ 64 ബൈറ്റുകൾ eax രജിസ്റ്ററിലേക്ക് നീക്കുന്നു eax രജിസ്റ്ററിലേക്ക് arbitrary ഡാറ്റ ലോഡുചെയ്യാൻ സ്റ്റാക്കുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക addressനോട് 64 bytes add ചെയ്തു കിട്ടുന്ന അഡ്രസ്സിൽ eax രജിസ്റ്ററിലേക്ക് move ചെയ്യേണ്ട ഡാറ്റ store ചെയ്യുന്നു തുടർന്ന് നമ്മൾ ഈ പ്രത്യേക രൂപത്തിൽ ഗാഡ്ജറ്റുകൾ ക്രമീകരിക്കുന്നു സ്റ്റാക്ക് പോയിന്റർ തുടക്കത്തിൽ G1 ലേക്ക് point ചെയ്യുന്നു തുടർന്ന് നമുക്ക് ഗാഡ്ജെറ്റ് 2 ഉണ്ട് ഈ രണ്ട് ഗാഡ്ജെറ്റുകളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ആദ്യം G1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇത് point ചെയ്യുന്നതിനായി വർദ്ധിപ്പിക്കുകയും poop എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം edx രജിസ്റ്ററിലെ ഉള്ളടക്കങ്ങൾ അഡ്രസ്സ് ആവുകയും ചെയ്യും സ്റ്റാക്ക് പോയിന്റർ G2 ലേക്ക് വിരൽ ചൂണ്ടുന്നു ഗാഡ്ജെറ്റ് G2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് edx രജിസ്റ്ററിലെ contents അത് ഒരു address ആണ് എടുത്ത് അതിലേക്ക് 64 ബൈറ്റുകൾ കൂട്ടുന്നു ഇപ്പോൾ കിട്ടിയ memory locationൽ "deadbeef" store ചെയ്തിട്ടുണ്ട് ഇത് eax രജിസ്റ്ററിൽ ലോഡുചെയ്യുന്നു തിരികെ സ്റ്റാക്ക് പോയിന്റർ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ point ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് eax രജിസ്റ്ററിലെ ഡാറ്റ സ്റ്റാക്കിലെ ചില സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം വീണ്ടും LIbcയിലൂടെ പാഴ്സുചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗപ്രദമാകുന്ന രണ്ട് ഗാഡ്ജെറ്റുകൾ കണ്ടെത്തി ആദ്യത്തെ ഗാഡ്ജെറ്റ് pop instructionഉം റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉം ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ ഗാഡ്ജെറ്റിൽ ഒരു move instruction ഉൾക്കൊള്ളുന്നു അവിടെ eax രജിസ്റ്ററിലെ ഉള്ളടക്കങ്ങൾ edx 24 എന്ന സ്ഥാനത്തേക്ക് നീക്കുന്നു ഈ പ്രത്യേക store നേടുന്നതിന് നമ്മൾ സ്റ്റാക്ക് ഇനിപ്പറയുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു നമുക്ക് ഗാഡ്ജെറ്റ് 1 ന്റെ address ശേഷം 0 തുടർന്ന് ഗാഡ്ജെറ്റ് 2 ന്റെ address ഉണ്ട് ഈ രണ്ട് ഗാഡ്ജെറ്റുകളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ സ്റ്റാക്ക് പോയിന്റർ ഗാഡ്ജെറ്റ് 1 ന്റെ address ലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഗാഡ്ജെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കാരണമാകും അങ്ങനെ edx ൽ 0 store ചെയ്യുന്നു കൂടാതെ pop ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇൻഗ്രിമെൻറ് ചെയ്യപ്പെടും അപ്പോൾ ഗാഡ്ജെറ്റ് 2 ന്റെ address ലേക്ക് പോയിന്റു ചെയ്തിരിക്കും G2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ edxന്റെ contents 0 24 bytes ആയിരിക്കും eax രജിസ്റ്ററിലെ contents edx 24 bytes എന്ന് addressൽ സൂക്ഷിക്കുന്നു G1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ edx ന്റെ മൂല്യം 0 ആയി മാറുന്നു അതിനാൽ ചുവടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതുപോലെ eax ന്റെ contents ഈaddressൽ സൂക്ഷിക്കും ഇപ്പോൾ മറ്റൊരു ഗാഡ്ജെറ്റിന്റെ ഉദാഹരണം നോക്കാം മുഴുവൻ Libc ഫയലും പാഴ്സുചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഗാഡ്ജെറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇത് edx രജിസ്റ്റർ ചൂണ്ടിക്കാണിച്ച മെമ്മറി ലൊക്കേഷന്റെ contents എടുക്കുകയും അവ eax രജിസ്റ്ററിൽ ചേർക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ ഗാഡ്ജെറ്റിൽ ഒരു push edi നിർദ്ദേശവും ഉണ്ട് Libcൽ ഇപ്പോൾ ലഭ്യമായ ഒരേയൊരു ഗാഡ്ജെറ്റ് ഇതാണ് നിർഭാഗ്യവശാൽ ഈ ഗാഡ്ജെറ്റിലെ push instruction കാരണം നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകും എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ സ്റ്റാക്ക് ഇതുപോലെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് കരുതുക മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് അഥവാ edx രജിസ്റ്റർ ചൂണ്ടിക്കാണിച്ച മെമ്മറി ലൊക്കേഷന്റെ contents എടുക്കുകയും അവ eax രജിസ്റ്ററിൽ ചേർക്കുകയും ചെയ്യുന്നു ഈ ഗാഡ്ജെറ്റിനെ addition gadget എന്ന് വിളിക്കാം point ചെയ്യുന്ന GadgetAddr ഉണ്ട് തുടർന്ന് നമുക്ക് ഒരു gadget address 2 ഉണ്ട് അത് മറ്റ് ചില ഗാഡ്ജെറ്റുകളിലേക്ക് പോയിന്റു ചെയ്യുന്നു ഈ ഗാഡ്ജെറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതുപോലെ സ്റ്റാക്ക് പോയിന്റർ ഇവിടെ പോയിന്റു ചെയ്യുന്നു eax രജിസ്റ്ററിൽ ചേർക്കുന്നതിന് edx രജിസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ ഉള്ളടക്കങ്ങൾ നമ്മുടെ പക്കലുണ്ട് നിർഭാഗ്യവശാൽ നേരത്തെ സൂചിപ്പിച്ച push instruction ഇപ്പോൾ സ്റ്റാക്കിലെ ഈ gadget 2 ന്റെ address മാറ്റുന്നു കാരണം ഒരു push instruction രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത് സ്റ്റാക്ക് പോയിന്ററിനോട് യോജിക്കുന്ന സ്റ്റാക്ക് രജിസ്റ്ററിലെ contents എഴുതുകയും സ്റ്റാക്ക് പോയിന്റർ 4 ബൈറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ addition gadget ശരിയായി പ്രവർത്തിക്കുമ്പോൾ സ്റ്റാക്കിലെ gadget 2 പ്രവർത്തിക്കില്ല കാരണം അത് കേടായി അതിനാൽ ഈ പ്രത്യേക പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് നമുക്ക് ഒരു മാർഗം ആവശ്യമാണ് അതിനാൽ ഇതിനുള്ള ഒരു മാർഗ്ഗം Gadget Ret എന്നറിയപ്പെടുന്ന മറ്റൊരു ഗാഡ്ജെറ്റ് അവതരിപ്പിക്കുക എന്നതാണ് അത് 0xC3 അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഗാഡ്ജെറ്റിലേക്ക് point ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0xC3 return instructionനെ പ്രതിനിധീകരിക്കുന്നു ROPയിൽ return instruction ഒരു nop instruction ന് സമാനമാണ് ഇത് സ്റ്റാക്ക് പോയിന്റർ ഇൻഗ്രിമെൻറ് ചെയ്യുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അതിനാൽ ഈ സ്കീം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം തുടക്കത്തിൽ G1 ലേക്ക് പോയിന്റുചെയ്യുന്ന സ്റ്റാക്ക് പോയിന്റർ ഉണ്ട് അതിനാൽ നമ്മൾ ഉപയോഗിച്ച ഈ ഗാഡ്ജെറ്റ് സ്റ്റാക്കിലെ contents edi രജിസ്റ്ററിലേക്ക് pop ചെയ്യുന്നു അതിനാൽ സ്റ്റാക്ക് ഈ പ്രത്യേക സമയത്താണ് ഈ സ്ഥാനത്തേക്ക് പോയിന്റുചെയ്യുന്നത് ഈ പ്രത്യേക ഗാഡ്ജെറ്റ് റിട്ടേണിന്റെ വിലാസം edi രജിസ്റ്ററിലേക്ക് ലോഡുചെയ്യുന്നു അതേ സമയം പോപ്പ് ഈ സ്ഥാനത്തേക്ക് പോയിന്റുചെയ്യുന്നതിന് സ്റ്റാക്ക് പോയിന്റർ ഇൻഗ്രിമെൻറ് ചെയ്യുമെന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ സ്ഥാനത്ത് ഗാഡ്ജെറ്റ് അഡ്രസ്സ് 2 ഉണ്ട് അത് നമുക്ക് ആവശ്യമായ അഡിഷൻ ചെയ്യുന്നതുമാണ് ഇപ്പോൾ push നിർദ്ദേശം edi registerൻറെ ഉള്ളടക്കം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും ediയിലെ contentsൽ മുമ്പത്തെ ഗാഡ്ജെറ്റ് കാരണം ഒരു return instruction മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ സ്റ്റാക്ക് പോയിന്റർ വർദ്ധിപ്പിച്ച ശേഷം ഗാഡ്ജെറ്റ് 3 ന്റെ address ലേക്ക് സ്റ്റാക്ക് പോയിന്റർ പോയിന്റു ചെയ്യുന്നു ഈ വിധത്തിൽ നമുക്ക് addition gadgetലെ push instructioന്റെ സാന്നിധ്യം പരിഹരിക്കാൻ കഴിയും ROP ൽ നിരുപാധികമായ ബ്രാഞ്ചിംഗ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം ROP ൽ നിരുപാധികമായ ബ്രാഞ്ചിംഗ് എന്നതു കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ സ്റ്റാക്ക് പോയിന്റർ അതിന്റെ തുടർച്ചയായ ഇൻക്രിമെന്റുകളിൽ നിന്ന് മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ചില ഏകപക്ഷീയമായ ക്രമത്തിൽ ഗാഡ്ജെറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും ഒരേ ഗാഡ്ജെറ്റ് എങ്ങനെ വീണ്ടും വീണ്ടും പ്രവർത്തിപ്പിക്കാമെന്ന് ലൂപ്പ് ഉപയോഗിച്ച് demonstrate ചെയ്യും നമ്മൾ ഒരു pop instruction അടങ്ങുന്ന ഒരു ഗാഡ്ജെറ്റിന്റെ ഉദാഹരണം എടുക്കുന്നു അത് സ്റ്റാക്ക് പോയിന്ററിലേക്കുള്ള ഒരു പോപ്പ് ആണ് അതിനുശേഷം ഒരു return statement ഉണ്ടാകും ഈ പ്രത്യേക ഗാഡ്ജെറ്റ് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നുവെന്ന് നമുക്കറിയാം നമുക്ക് ഇവിടെ സ്റ്റാക്ക് പോയിന്റർ ഉണ്ട് കൂടാതെ ഈ സ്ഥാനം A ആയി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ മെമ്മറി സ്ഥാനത്ത് അതേ സ്ഥാനം A ഉണ്ടെന്നും നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഈ പോപ്പ് നിർദ്ദേശം ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ സ്റ്റാക്ക് പോയിന്റർ ചൂണ്ടിക്കാണിച്ച ലൊക്കേഷന്റെ ഉള്ളടക്കങ്ങൾ പോപ്പ് ചെയ്യുകയും ഈ പ്രത്യേക ഉള്ളടക്കങ്ങൾ സ്റ്റാക്ക് പോയിന്ററിൽ സംഭരിക്കുകയും ചെയ്യുന്നു എന്നതാണ് സ്റ്റാക്ക് പോയിന്റർ A ലൊക്കേഷനിലേക്ക് റീ സെറ്റ് ചെയ്തു കൊണ്ട് പ്രത്യേക ഗാഡ്ജെറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു ഈ രീതിയിൽ സ്റ്റാക്ക് പോയിന്റർ തുടർച്ചയായി ഈ രണ്ടു ലൊക്കേഷനും ഇടയിൽ നീങ്ങുന്നത് നമ്മൾ കാണുന്നു ROP പ്രോഗ്രാമുകളിൽ ലൂപ്പുകൾ സൃഷ്ടിക്കാൻ നിരുപാധികമായ ബ്രാഞ്ചിംഗ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ രീതിയൽ നമ്മൾ കാണിക്കുന്നു ടെക്നിക്കുകൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സമാനമായ രീതിയിൽ നമുക്ക്സോപാധികമായ ബ്രാഞ്ചിംഗും ROP ൽ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ നമ്മൾ സൃഷ്ടിച്ച ഗാഡ്ജെറ്റുകളുടെ ചില ഉദാഹരണങ്ങൾ ഇവയാണ് വാസ്തവത്തിൽ ROP ഗാഡ്ജെറ്റുകൾ നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം ഉപകരണങ്ങൾ ഇൻറർനെറ്റിൽ ലഭ്യമാണ് അതിനാൽ നമ്മൾ ഉപയോഗിച്ച ചില പ്രശസ്തമായ ഉപകരണങ്ങൾ ROP ഗാഡ്ജെറ്റും Ropperഉംആണ് രണ്ടും ഈ സ്ഥലങ്ങളിൽ ലഭ്യമാണ് Jonathan Salwan ഡിസൈൻ ചെയ്ത ROP gadget നമ്മൾ പരിശോധിച്ചു എൻറെ അഭിപ്രായത്തിൽ ELF object ആയ ഏതു object ഫയലിൽ വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യും ആ പ്രത്യേക ലൈബ്രറിയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഗാഡ്ജറ്റുകളെയെല്ലാം അത് ഔട്ട്പുട്ട് ചെയ്യും നമ്മൾ സൃഷ്ടിച്ച വ്യത്യസ്ത ഗാഡ്ജെറ്റുകളുടെ ചില ഉദാഹരണങ്ങളായിരുന്നു ഇവ വാസ്തവത്തിൽ ROP പ്രോഗ്രാമുകൾ വളരെ സങ്കീർണ്ണമായതിനാൽ നിങ്ങൾക്ക് കുറച്ച് വ്യത്യസ്ത പ്രോഗ്രാം പ്രവർത്തനക്ഷമത നേടാൻ കഴിയും വാസ്തവത്തിൽ X86 സിസ്റ്റങ്ങൾക്കായി ROP പ്രോഗ്രാമുകൾ Turing Completel എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഏത് പ്രോഗ്രാമിലും ഇത് നടപ്പിലാക്കാൻ കഴിയും ARM പോലുള്ള RISC പ്രോസസ്സറുകളിൽ ROP അടിസ്ഥാനമാക്കിയുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ROP പ്രോഗ്രാമുകൾ നിർമ്മിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ട് ഉദാഹരണത്തിന് വെബ്സൈറ്റുകളിൽ ലഭ്യമായ ROP ഗാഡ്ജെറ്റും റോപ്പറും ഒബ്ജക്റ്റ് ഫയലുകൾ വിശകലനം ചെയ്യുന്നതിനും ഈ ഒബ്ജക്റ്റ് ഫയലുകളിൽ നിലവിലുള്ള എല്ലാ ROP ഗാഡ്ജെറ്റുകളും പ്രിന്റുചെയ്യുന്നതിനും ഉപയോഗിക്കാം അതിനാൽ ഈ പ്രത്യേക കോഴ്സിനായുള്ള github repoയിൽ നമ്മൾ ചില ROP ഗാഡ്ജെറ്റുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് പ്രദർശിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ ചേർക്കുന്നു ഉദാഹരണത്തിന് ഒരു സംഖ്യയുടെ ഫാക്റ്റോറിയൽ കണ്ടെത്തുന്നതിനെ ഫാക്റ്ററൈസ് ചെയ്യുന്നത് പോലുള്ള ചെറിയ പ്രോഗ്രാമുകൾ എഴുതുക നന്ദി